അനിമൽ സെൽ കൽച്ചറിന്റെ ലെക്ചർ പരമ്പരയിലേക്കു വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ ആറാമത്തെ ആഴ്ചയിലാണ് ഇന്ന് നാലാമത്തെ പ്രെഭാഷണം ആരംഭിക്കുന്നു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവസാന പ്രഭാഷണം ഇവിടെയാണ് നമ്മൾ നിർത്തിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഒഴുക്ക് നഷ്ടപെടുത്തരുതെന്ന് കാരണം മൈലീനേഷൻ മനസിലാക്കുന്നത്തിനായി അൽപം വ്യതിചലിച്ചതിന് ശേഷം നമ്മൾ ഉടൻ മടങ്ങിവരും അതിനാൽ ഇപ്പൊ നിങ്ങൾക്ക് അഡൽറ്റ് ഹിപ്പോകാമ്പൽ ഡിസോസിയേറ്റഡ് സെല്ലുകൾ ഉണ്ട് നിങ്ങൾക്ക് പിരമിഡൽ സെല്ലുകൾ ഉണ്ട് നിങ്ങൾക്ക് അസ്ട്രോഗ്ലിയയുണ്ട് ഒലിഗോഡെൻഡ്രോസൈറ്റ് ഉണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഡൽറ്റ് ടിഷ്യു ലഭിക്കുവാണെങ്കിൽ ഈ സെല്ലുകളെല്ലാം വേർതിരിച്ച് എടുക്കാനാകും ഇവിടെയാരുന്നു നമ്മൾ ഇത് ആരംഭിച്ചത് അതിനാൽ ഇതാണ് നിങ്ങൾ നേടാൻ പോകുന്ന ടിഷ്യു ഹിപ്പോകാമ്പൽ ന്യൂറോൺ അതിനാൽ നിങ്ങൾ ഇത് നേടുന്നതിനായി ആദ്യം സെല്ലുകളെ ഓരോന്നായി വേര്തിരിച്ചെടുക്കുന്നു ശേഷം കോൺടാക്റ്റുകൾ പുനസ്ഥാപിക്കുക അതിനാൽ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന പോപുലേഷൻ പിരമിഡൽ സെല്ലുകൾ ഇന്റേൺയുറോൺസ്കൾ ആസ്ട്രോഗ്ലിയ ഒലിഗോഡെൻഡ്രോസൈറ്റ് ആദ്യം നിങ്ങൾ ഈ സെല്ലുകളെ വിച്ഛേദിക്കുന്നു ഡിസോസിയേഷൻ പ്രോട്ടോക്കോളിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അടുത്തതായി നിങ്ങൾ ഈ സെല്ലുകളെ വേർപെടുത്തിയ ശേഷം എങ്ങനെ ഇവയെ വേർതിരിചെടുക്കാനാകും എന്നാണ് അതിനാൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് വരാം ഇപ്പോൾ ആറാമത്തെ ആഴ്ചയിലെ നാലാമത്തെ ലെക്ച്ചറിൽ ആണ് W6 L4 അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോൺ ലഭിക്കുന്നതിനെക്കുറിച്ചും അവയെ എങ്ങനെ വേർപെടുത്താൻ പോകുന്നുവെന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിരമിഡൽ ന്യൂറോണ്സ് ഇന്റർ ന്യൂറോണ്സ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് മൈക്രോഗ്ലിയ ആസ്ട്രോസൈറ്റ്സ് എന്നിവ ഉണ്ടാകും അതിനാൽ സെൽ വേർതിരിക്കലിന്റെ ഏറ്റവും ലളിതമായ വഴികളിൽ ഒന്നാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്താണ് യഥാർത്ഥത്തിൽ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ അതിനാൽ ഈ സെല്ലുകളെ ഓരോന്നായി വേര്തിരിച്ചെടുക്കുമ്പോൾ ആദ്യം അവയുടെ ജനസംഖ്യയിലെ വലുപ്പ വ്യത്യാസം എന്താണെന്ന് കാണാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് പിരമിഡൽ ന്യൂറോണുകളെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു അഡൽറ്റ് ആളാണെങ്കിൽ വിച്ഛേദിക്കലിന് ശേഷം അവക്ക് എല്ലാ പ്രക്രിയകളും നഷ്ടപ്പെട്ടു ഇതുപോലെയാവും അവ കാണപ്പെടുക ഇന്റേൺയുറോൺ നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാണെന്ന് കാണാനാകും അതേസമയം ഒളിഗോകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവ വളരെ ചെറുതായിരിക്കും മൈക്രോഗ്ലിയ കാണാൻ കഴിയില്ല അത്രക്ക് ചെറുതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഒളിഗോഡെൻഡ്രോസൈറ്റിനോട് സമാനമായ ആസ്ട്രോസൈറ്റ്സ് ഉണ്ട് എന്നാൽ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഇവയെല്ലാം വികസന പ്രക്രിയയിൽ വ്യത്യസ്ത സമയങ്ങളിൽ രൂപം കൊള്ളുന്നു എന്നാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വികസന പ്രക്രിയയിൽ ഇവ വ്യത്യസ്ത സമയ ഘട്ടങ്ങളിൽ രൂപം കൊള്ളുന്നു അതിനാൽ അവരുടെ ആവശ്യകതകളും ഇപ്പോൾ വ്യത്യസ്തമാണ് ഇതിലേക്ക് പോകാനുള്ള എളുപ്പവഴികളിലൊന്ന് എന്തെന്നാൽ ഈ സെല്ലുകളിൽ ഓരോന്നിനും വ്യത്യസ്ത സാന്ദ്രത ഉണ്ടായിരിക്കും ഈ സാന്ദ്രതയെ അടിസ്ഥാനമാക്കി പ്രധാനമായും മാസ്സ് അനുപാതത്തിൽ വോളിയമിൽ നിന്ന് നിങ്ങൾക്ക് ഈ സെല്ലുകളെ വേർതിരിക്കാനാകും എന്നാൽ ഇതിനായി ഒരു ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്താണ് ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളം അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ന്യൂട്രൽ ലിക്വിഡ് ഉണ്ട് അത് സുക്രോസ് ആകാംഅല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി ഉപയോഗിക്കുന്ന പുതിയ ഒന്നായ ഒപ്റ്റി പ്രെപ്പ് ആകാം കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായ ഒപ്റ്റി പ്രെപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുക്രോസിന് ഓസ്മോലാരിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇനി നിങ്ങൾ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാകണം അതിനായി നിങ്ങൾ ലെയർ ചെയ്യുക ഈ ലയിനികളെ നിങ്ങൾക്ക് വ്യത്യസ്ത സാന്ദ്രതയിൽ ആകാൻ കഴിയും ഉദാഹരണത്തിന് ഒപ്റ്റി പ്രെപ്പ് ഡെൻസിറ്റി 1 ഡെൻസിറ്റി 2 ഡെൻസിറ്റി 3 ഇവയിലേക് അനുയോജ്യമായ ചില ബഫർ ഡി 5 ഡി 6 ചേർത്ത് എടുക്കുക നമ്മുക് ഈ ലളിതമായ ഉദാഹരണം എടുക്കാം അതിനാൽ ഞാൻ ഒപ്റ്റി പ്രെപ്പ്ന്റെ 6 വ്യത്യസ്ത സാന്ദ്രതകൾ എടുക്കുന്നു ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഞാൻ സുക്രോസ് എടുക്കുന്നില്ല അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ x അളവിൽ ഒപ്റ്റി പ്രിപ്പിനെ എടുക്കുന്നു പിന്നെ ന്യൂറോണൽ സെല്ലുകളുടെ നിലനിൽപ്പിനായി y അളവിൽ ഒരു ബഫറും ഞാൻ ഉപയോഗിക്കുന്നു ശേഷം ഇവയെ ഒരു പ്രത്യേക അനുപാതത്തിൽ കലർത്തി ഒരു പ്രത്യേക സാന്ദ്രത ഞാൻ കൈവരിക്കുന്നു അതായത് ഡെന്സിറ്റി 1 ഇപ്പോൾ ഞാൻ ഇവയെ മറ്റൊരു അനുപാതത്തിൽ കലർത്തി ഡെന്സിറ്റി 2 നേടുന്നു ഡെന്സിറ്റി 1 ഡെന്സിറ്റി 2 ന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെന്ന് കരുതുന്നു അതായത് ഡെന്സിറ്റി 2 കുറഞ്ഞ സാന്ദ്രത ആണെന്ന് പിന്നെ ഞാൻ ഡെന്സിറ്റി 3 ഉണ്ടാക്കുന്നു ഇപ്പോൾ ഡെന്സിറ്റി 1 ഡെന്സിറ്റി 2 ഡെന്സിറ്റി 3 പിന്നെ എനിക്ക് മറ്റൊരു ഡെന്സിറ്റി 4 ലഭിക്കുന്നു ഞാൻ അവയെ ചെറിയ അളവിൽ കലർത്തുന്നു ഒരു മില്ലി കട്ടിയുള്ളതായിട്ട് ഇങ്ങനെ എനിക്ക് ഡെന്സിറ്റി 1 ഡെന്സിറ്റി 2 ഡെന്സിറ്റി 3 ഡെന്സിറ്റി 4 ലഭിക്കുന്നു നമുക്ക് 4 ലേക്ക് പറ്റിനിൽക്കാം അതിനാൽ ഇപ്പോൾ ഞാൻ ഒരു പൈപ്പറ്റ് എടുക്കുന്നു എന്നിട്ട് ഈ പൈപ്പറ്റിൽ ഞാൻ ഏറ്റവും ഉയർന്ന ഡെന്സിറ്റി ഉപയോഗിച്ച് 1 മില്ലി ലേയറിംഗ് ചെയ്യുന്നു ഈ ലേയറിംഗിന് വളരെ സൌമ്യമായി ചെയ്യണം അതിനാൽ ഇത് ഡെന്സിറ്റി 1 എന്തിനാണ് നിങ്ങൾ ഈ ലേയറിംഗ് ചെയ്യുന്നത് ഞാൻ ഇത് പഠിക്കാൻ വളരെയധികം സമയമെടുത്തു ഇത് തികച്ചും ഒരു ട്രയൽ ആൻഡ് എറർ പ്രക്രിയ ആണ് പിപ്പെറ്റിങ് ചെയുമ്പോളെല്ലാം സാധാരണമായി നിങ്ങൾ പൈപ്പറ്റ് ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ദ്രാവകം ഒഴിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഡെന്സിറ്റി ഗ്രേഡിയന്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാൾ ഇത് ചെയുന്ന രീതിയാണ് ഈ ഡെന്സിറ്റി ഗ്രേഡിയന്റായി മാറ്റുന്നത് നിങ്ങൾ ഈ മുഴുവൻ കാര്യത്തെയും ഇതുപോലെ ചെരിക്കുക ഏതാണ്ട് വളരെ അക്യൂട്ട് ആംഗിളിലേക് ആഗിൾ കൂടുന്നതനുസരിച് ഇത് പൂജ്യത്തോട് അടുക്കുന്നു ഇത് പ്രായോഗികമായി വരുന്നതാണ് ഇതിനായി ഒരു ശാസ്ത്രവും ഇല്ല നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ശരിക്കും പിടിക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഇതുപോലെ പിടിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും അതായത് കൂടുതൽ അക്യൂട്ട് ആംഗിളിലേക് എന്നാൽ ഇത് തിരശ്ചീനമായി പിടിക്കാൻ കഴിയില്ല അത് പുറത്തേക്ക് ഒഴുകി പോകും ശേഷം വളരെ ഇടുങ്ങിയ ബോര് പൈപ്പറ്റ് ഉപയോഗിച്ചുകൊണ്ടു വളരെ സൌമ്യമായി ഈ പാളി രൂപപ്പെടുത്താൻ അനുവദിക്കുക അതിനാൽ നിങ്ങളുടെ പൈപ്പറ്റ് ടിപ്പ് ഇവിടെയാണ് നിങ്ങൾക്ക് ആ മാർജിൻ ഉണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് പോയി സാവധാനം ലയർ ചെയ്യാവുന്നതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ നേടിയത് എന്തെന്നാൽ ലെയർ 1 ആണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് ചെറുതായി ചരിച്ച് തന്നെ പിടിക്കണം ശേഷം അത് അവിടെ സ്വസ്ഥമാകാൻ അനുവദിക്കുക തുടർന്ന് അടുത്ത ലെയർ ഇടുക ഇതാണ് ഡെന്സിറ്റി 1 ഇതാണ് ഡെന്സിറ്റി 2 തുടർന്ന് വളരെ സൌമ്യമായി തന്നെ നിങ്ങൾ ഡെന്സിറ്റി 3 ഇതിന് മുകളിൽ ഇടുക എന്നെ വിശ്വസിക്കൂ ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിനു മുകളിലായി നിങ്ങൾ വീണ്ടും ഡെന്സിറ്റി 4 നേടുന്നു അതിനാൽ നിങ്ങൾ വ്യത്യസ്ത ഡെന്സിറ്റികൽ ലെയറിങ് ചെയുന്നു അതിൽ ഉയർന്ന സാന്ദ്രത ഇവിടെ സ്ഥിതിചെയ്യുന്നു ഇവിടെ രണ്ടാമത്തെ ഉയർന്നത് ഇവിടെ മൂന്നാമത്തെ ഉയർന്നത് ഇവിടെ നാലാമത്തെത് അതിനാൽ ഏറ്റവും മുകളിൽ ഉള്ളതാണ് ഇവയിൽ ഏറ്റവും ഡെന്സിറ്റി കുറഞ്ഞത് നിങ്ങൾ ഒരു പ്രത്യേക ബഫറിൽ വ്യത്യസ്ത തരം സെല്ലുകളെ വേർപെടുത്തി വെച്ചിരുന്നു ഇപ്പോൾ ഇതിനുമുകളിൽ നിങ്ങൾഈ വിച്ഛേദിച്ച സെല്ലുകൾ ഇടുക പിന്നെ ഞാൻ നിങ്ങളോട് ഈ പാളികൾ ഉണ്ടാകുവാൻ പറഞ്ഞിരുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇത് ലെയർ 1 ലെയർ 2 ലെയർ 3 ലെയർ 4 അതിനാൽ നിങ്ങൾ ഈ ലെയറുകൾ നിർമ്മിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ലയറിൽ 4 മില്ലി അല്ലെങ്കിൽ 6 മില്ലി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾക് ഇഷ്ടമുള്ളപോലെ എടുക്കാൻ ഞാൻ വിട്ടുതരുന്നു കാരണം ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സെൽ ടൈപ്പ് ആശ്രയിച്ചിരിക്കും ഇപ്പൊ നിങ്ങൾ പാൻക്രിയാറ്റിക് സെല്ലുകലാണ് എടുത്തതെങ്കിൽ ഐലെട്സ് ഓഫ് ലാംഗർഹാൻസ് വേർതിരിക്കേണം ഇങ്ങനെ എല്ലാ കാര്യത്തിനും വ്യത്യസ്തതരം ലേയറിംഗ് ആവശ്യമുണ്ട് എന്നാൽ യുക്തി ഒന്നുതന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശത്തിലെയോ വൃക്കകളിലെയോ സെല്ലുകൾ വേർതിരികണമെങ്കിൽ വ്യത്യസ്ത കോൺസെൻട്രേഷൻ ആവശ്യമാണ് പക്ഷേ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷന്റെ യുക്തി അതേപടി തുടരും ന്യൂറോണൽ കേസ് എടുക്കുന്നതിനുള്ള കാരണം ഇത്തരത്തിലുള്ള ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗഷന്റെ ചരിത്രത്തിൽ അവസാനമായി ഉപയോഗിച്ചിരുന്നത് ഇവ ആയതിനാലാണ് മറ്റ് സെൽ തരങ്ങൾക്കായി മുമ്പത്തെ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗഷൻ ഉപയോഗിച്ചിരുന്നു അതിനാൽ ഇതാണ് ഞാൻ നിങ്ങളോട് ഉണ്ടാകുവാൻ ആവശ്യപ്പെട്ട ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളം ഇനി ഈ ഡെന്സിറ്റി ഗ്രേഡിയന്റ് കോളത്തിന് മുകളിലായി ഈ വിഘടിച്ച സെല്ലുകൾ ഉപയോഗിച് വളരെ നേർത്ത ഒരു പാളി ഉണ്ടാക്കുന്നു ഇവയാണ് നിങ്ങൾ വേർപെടുത്താൻ ആഗ്രഹിക്കുന്ന സെല്ലുകൾ ഇത് ചെറുതും വലുതുമായ സെല്ലുകളുടെ ഒരു മിശ്രിതം ആയിരിക്കും ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പോയി സാന്ദ്രത എന്താണെന്ന് മനസിലാക്കാൻ ആവശ്യപ്പെടില്ല എന്നാൽ ഈ സാങ്കേതികവിദ്യ വിപണിയിൽ വന്ന ശേഷം കഴിഞ്ഞ 56 വർഷമായി ആളുകൾക്ക് സെല്ലുകൾക്ക് അനുയോജ്യമായ സാന്ദ്രത എന്താണെന്ന് നല്ല ധാരണയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് എടുത്ത് അതിന്റെ ലീഡ് സീൽ ചെയുക ശേഷം ഒരു സെൻട്രിഫ്യൂജിൽ സ്പിൻ ചെയ്യുക ദയവായി സെല്ലുലറിന്റെ ഏറ്റവും മുകളിലുള്ള ഈ പാളി ഉണ്ടാകുന്നതിൽ ജാഗ്രത പാലിക്കുക ഇത് വളരെ ചെറിയ ബാൻഡ് ആയിരിക്കണം കട്ടിയുള്ള ബാൻഡ് ശുപാർശ ചെയ്യുന്നവരുണ്ട് എന്നാൽ വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കിയത് അത് ശരിക്കും പ്രവർത്തികില്ലെന്നാണ് നിങ്ങൾ അത് സ്പിൻ ചെയ്തുകഴിഞ്ഞാൽ സെല്ലിന്റെ സാന്ദ്രതയെ ആശ്രയിച്ച് അവർ വ്യത്യസ്ത സാന്ദ്രത മേഖലകളിൽ സ്ഥാപിതമാക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇതുപോലൊരു ഡെന്സിറ്റി കോളം ഉണ്ട് d 1 d 2 d 3 d 4 d 5 d 6 d 7 ഞാൻ ഈ പാറ്റേൺ അല്ല പിന്തുടരുന്നത് എന്നാൽ ഇത് നിങ്ങൾ മനസിലാക്കുവാൻ വേണ്ടിയാണ് വ്യത്യസ്ത സാന്ദ്രതയിലുള്ള സെല്ലുകൾ അവക്ക് പൊരുത്തപ്പെടുന്ന സാന്ദ്രത കണ്ടെത്തുന്നിടത്ത് സ്വസ്ഥമാക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന ഈ സാങ്കേതികതയിൽ നിങ്ങൾ ശരിക്കും മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വലിപ്പം അല്ലെങ്കിൽ സെൽ വലുപ്പത്തിന്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് സെല്ലുകൾ വേർതിരിക്കാനാകും ഇത് ഏറ്റവും വിലകുറഞ്ഞതും എളുപ്പമുള്ളതുമാണ് പക്ഷേ ഇതിന് ഒരുപാട് ഒപ്റ്റിമൈസേഷൻ പ്രോട്ടോക്കോൾ ആവശ്യമാണ് ഈ ഒപ്റ്റിമൈസേഷന്റെ കാഠിന്യത്തിലൂടെ എല്ലാം നിങ്ങൾക്ക് കടന്നുപോകേണ്ടതായി വരും പക്ഷേ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷന്റെ അടിസ്ഥാനം ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാങ്കേതികതയെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ അടുത്ത ഭാഗം അതിന്റെ പിന്നിലെ അടിസ്ഥാന ഭൌതികശാസ്ത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഇപ്പോൾ ഈ കഥക്കൊരു പ്രായോഗിക വശം കൂടി ഉണ്ട് എന്നാൽ ഞാൻ അതിനെകുറിച്ച് സംസാരിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഈ സെല്ലുകളെ മികച്ച രീതിയിൽ വേർതിരിക്കുന്നു ഇങ്ങനെ ഒരിക്കൽ നിങ്ങൾ ഇവയെ വേര്തിരിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇവയെ പുറത്തെടുക്കണം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ തലത്തിലും ഒരു ബാൻഡ് രൂപം കൊള്ളുന്നത് കാണാം ഇനി ആ ബാൻഡ് പുറത്തെടുക്കുക എന്നാൽ അത് അത്ര എളുപ്പമല്ല ഉദാഹരണത്തിന് ഞാൻ മൂന്ന് ബാൻഡുകൾ മൂന്ന് വ്യത്യസ്ത സോണുകളിൽ കാണുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ബയോകെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്ന ഹാമിൽട്ടൺ സിറിഞ്ചിനോട് സമാനമായ ഒന്ന് ആവശ്യമാണ് ഇത് ശരിക്കും ഹാമിൽട്ടൺ അല്ല എന്നാൽ അതിനോട് സമാന്തരമായ ഒന്നാണ് അത്തരം ഒന്ന് അടുത്ത് കൊണ്ടുവന്ന് ഓരോ ബാൻഡ്കളും പുറത്തെടുകുക ശേഷം ഓരോന്നും പ്രത്യേക ടെസ്റ്റ് ട്യൂബിൽ ആയി മാറ്റുക ഇങ്ങനെ നിങ്ങൾ ഈ സെല്ലുകളെ പുറത്തെടുത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാൻഡ് സെല്ലുകൾ ഉണ്ട് ഇത് ബാൻഡ് 1 ഇത് ബാൻഡ് 2 ഇത് ബാൻഡ് 3 ആണ് ആദ്യമായി ഇത് ചെയ്യുമ്പോൾ ഇവയൊക്കെ സെല്ലുകളാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെല്ലിന്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടുപിടിക്കുക എന്നാണ് ഇതിനായി രണ്ട് രീതികളുണ്ട് ഇമ്യൂണോ സൈറ്റോ കെമിക്കലിimmuno cyto chemically ആണ് ഒരു രീതി അടുത്തത് കാലക്രമേണ അവ എങ്ങനെ വളരുന്നുവെന്നറിയാൻ അവയെ വളർത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ബാൻഡുകളാണ് ഏത് സെൽ തരത്തെ പ്രതിനിധീകരിക്കുന്നതെന്നു നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ ഇവയൊക്കെയാണ് വർഷങ്ങളായി ഉപയോഗിച്ചുവരുന്ന സാങ്കേതികവിദ്യകൾ ഹിപ്പോകാമ്പൽ ന്യൂറോണിന് ശേഷം സ്പൈനൽകോർഡ് ന്യൂറോണിലേക് ഞാൻ വരാം അവിടെ നിങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റിനെയും മറ്റ് നിരവധി സെൽ തരങ്ങളെയും വേർതിരികുന്നതിലെക് ഒക്കെ ഞാൻ വരും അതിനാൽ ഞാൻ ഇവിടെ എന്താണ് ഹൈലൈറ്റ് ചെയുവാൻ ആഗ്രഹിക്കുന്നതെന്നാൽ അതിനാൽ ഡിഫൈൻഡ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം നേടുന്നതിനുമുമ്പ് ഒരാൾ മാസ്റ്റർ ചെയ്യേണ്ട അടിസ്ഥാന സാങ്കേതികവിദ്യകളും ഫോളോ അപ്പ് സാങ്കേതികവിദ്യകളുമാണ് ഇവ നേരത്തെ ഭ്രൂണ ന്യൂറോണുകൾക്കായി ഈ പ്രത്യേക സാങ്കേതികതയിൽ നൈകോഡെൻസ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു കാര്യം കുടി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോ ഇത് ഇല്ല കാരണം അവർ ഈ ഉൽപ്പന്നം നിർത്തലാക്കി ഇത് ഒപ്റ്റിപ്രീപ്പ്നോട് വളരെ സാമ്യമുള്ളതാണ് നിങ്ങൾക്ക് സുക്രോസും ഉപയോഗിക്കാൻ കഴിയും എന്നാൽ സുക്രോസിന്റെ പ്രെശ്നം എന്തെന്നാൽ ഈ സെല്ലുകളിൽ ഭൂരിഭാഗത്തിനും ഒരു പരിധിവരെ ഓസ്മോലാരിറ്റിയുണ്ട് സുക്രോസ് തന്മാത്ര കാരണം ഇത് ചില സമയങ്ങളിൽ കോശത്തെ തകർക്കും കാരണം ഇത് ഓസ്മോട്ടിക് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു പക്ഷേ നിങ്ങൾ ശരിക്കും ബുദ്ധിമാനാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് അത് നേടാൻ കഴിയും പക്ഷേ ഈ സാങ്കേതികവിദ്യയിൽ നിങ്ങൾ വൈദഗ്ദ്ധ്യം നേടാതെ ഞാൻ നിങ്ങൾക് ഇത് ശുപാർശ ചെയ്യില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒപ്റ്റിപ്രീപ്പ് അല്ലെങ്കിൽ നൈകോഡെൻസ് പോലുള്ള ഒന്ന് പരീക്ഷികുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു പക്ഷേ മിക്കവാറും നിങ്ങൾ നൈകോഡെൻസ് നേടാൻ പോകുന്നില്ല ഇത് ഏകദേശം 17 വർഷം മുമ്പ് നിർത്തലാക്കിയതാണ് റഫർ സമയം 1854 ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂജിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്ത സബ്സ്ട്രേറ്റുകൾ ഇവയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മറ്റൊരു വഴി കൂടി ഉണ്ട് അത് എന്റെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനാൽ ഒപ്റ്റിപ്രെപ്പ് ഉപയോഗിച്ച് വേർതിരിക്കലിന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്തെല്ലാമാണ് നേടിയെടുത്തിട്ടുള്ളത് അതിനാൽ ഇവയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചില ലിറ്ററേച്ചേർസ് നിങ്ങൾക്ക് അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണുകളെ വേർതിരിക്കാനാകും കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയാരുന്നെന്ന് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ഞാൻ അഡൽറ്റ് ഹിപ്പോകാമ്പൽ ന്യൂറോണുകളിലേക്ക് മടങ്ങിവരുമെന്ന് പറഞ്ഞിരുന്നു ഇത് ഞാൻ ഗ്രിഗറിയെ ബ്രൂവറിന്റെGregory Brewer's വർക്കിനോട് റെഫർ ചെയുന്നു അഡൽറ്റ് സ്പൈനൽ കോഡ് ന്യൂറോണുകൾക്കായി നേടിയത് ഞാൻ ജെയിംസ് ജെ ഹിക്ക്മാന്റെJames J Hickman's പ്രവർത്തനങ്ങളോട് റെഫർ ചെയുന്നു അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് ഈ സാങ്കേതിക വിദ്യകൾക്ക് തുടക്കമിട്ടത് അതിനുമുൻപ് വളരെ നല്ല ഒരു പേപ്പർ 1982 ൽ അല്ലെങ്കിൽ 83 ൽ നിന്ന് ഉള്ളത് അവർ ഭ്രൂണ മോട്ടോർ ന്യൂറോണുകളെ വേർതിരിക്കുന്ന ഒരു ജനതയാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എംബ്രിയോണിക് മോട്ടോർ ന്യൂറോൺ വേർതിരിക്കൽ എനിക്ക് ഈ പേപ്പറിന്റെ ഒരു പകർപ്പ് ലഭിക്കുമെങ്കിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്യാം കാരണം ഈ ഡെന്സിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനെല്ലാം ഉപയോഗിച്ചിരുന്ന വളരെ പഴയ പേപ്പറാണ് ഇത് അതിനാൽ ഇത് 1980 ലാണ് ഇത് 2000 ന്റെ തുടക്കവും ഇത് 2003 ഓടെയുമാണ് അതിനാൽ ഇങ്ങനെയാണ് ന്യൂറോണൽ സെല്ലിന്റെ അടിസ്ഥാനത്തിൽ സെൽ വേർതിരിക്കലിന്റെ ഈ മേഖല പുരോഗമിച്ചത് അതിനാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിനുമുമ്പ് ഞാൻ ഇവിടെ നിർത്തുന്നു അവിടെ സെൽ വേർതിരിക്കലിന്റെ മറ്റ് രണ്ട് സാങ്കേതികതകളെക്കുറിച്ച് സംസാരിക്കാം